അവസാന ക്ലാസിൽ പരീക്ഷണങ്ങളിൽ കാണുന്ന ചില വശങ്ങൾ വിശദീകരിക്കുന്നതിനായി ഊർജ്ജ പ്രകാശന നിരക്ക് സമീപനത്തിന്റെ ചാരുത നമ്മൾ പരിശോധിച്ചു ചെറുത്തുനിൽപ്പിനെ സങ്കൽപിക്കുന്നതിലൂടെ പൊട്ടുന്ന വസ്തുക്കൾക്കായി വികസിപ്പിച്ചെടുത്ത ആശയങ്ങൾ ഡക്റ്റൈൽ സോളിഡുകളിലേക്ക് വ്യാപിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു പൊട്ടുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ പ്രതിരോധം സ്ഥിരമായിരുന്നു അതേസമയം നിങ്ങൾ ഡക്റ്റൈൽ സോളിഡുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് എനർജി വ്യാപിക്കുന്നു അത് കണക്കിലെടുക്കുമ്പോൾ വിള്ളലിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പവും വർദ്ധിക്കുന്നു അതിനാൽ വിള്ളലിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം വർദ്ധിക്കുന്നു മാതൃകാ കട്ടിയുള്ള രണ്ട് അങ്ങേയറ്റത്തെ കേസുകൾ ഞങ്ങൾ പരിശോധിച്ചു കനം വളരെ വലുതായ ഒരു തലം സമ്മർദ്ദത്തിന്റെ കാര്യത്തിൽ R ന്റെ വ്യത്യാസം അല്പം ആഴം കുറഞ്ഞതായിരുന്നു തലം സമ്മർദ്ദത്തിലായ ഒരു നേർത്ത മാതൃകയ്ക്കായി നിങ്ങൾ വരുന്ന നിമിഷം R കർവ് ഇതുപോലുള്ള കുത്തനെയുള്ളതാണെന്ന് നമ്മൾ കണ്ടു സുസ്ഥിരമായ ഒടിവ് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മനസിലാക്കാൻ ഇത് സഹായിച്ചു ഈ ഗ്രാഫിൽ നിങ്ങൾ എന്താണ് കാണുന്നത് സ്ട്രെസ് ലെവൽ സിഗ്മ 1 ൽ നിന്ന് സിഗ്മ 2 ലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ G സമം R ഉണ്ട് ഞാൻ സമ്മർദ്ദം സിഗ്മ 3 ലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വിള്ളൽ ഒരു ചെറിയ അളവിൽ മുന്നേറുകയും നിർത്തുകയും ചെയ്യുന്നു ഞാൻ സമ്മർദ്ദം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതുവരെ അത് അവിടെ തന്നെ തുടരും സ്ട്രെസ് സിഗ്മ C ആകുമ്പോൾ G R ന് തുല്യവും ഈ രണ്ട് വളവുകളുടെ ചരിവുകളും തുല്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ഇതിനപ്പുറം നിങ്ങൾക്ക് ഒടിവ് അസ്ഥിരത ഉണ്ടാകും അതിനാൽ ഈ ഗ്രാഫ് കാണിക്കുന്നത് പ്രാരംഭ ദൈർഘ്യത്തിന്റെ a1 വിള്ളൽ ഡെൽറ്റ a1 എന്ന് മുന്നേറി ഈ വിപുലീകരണത്തിനായി ഒടിവ് സ്ഥിരമായിരുന്നു ഇതിനപ്പുറം നിങ്ങൾക്ക് അസ്ഥിരമായ ഒടിവുണ്ട് ഒടിവിന് ആവശ്യമായതും മതിയായതുമായ വ്യവസ്ഥകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അഭിനന്ദിക്കാം ആവശ്യമായ അവസ്ഥ G1 R1 ന് തുല്യമായിരിക്കണം എന്നതാണ് കാരണം കാരണം നമ്മൾ മോഡ് 1 രംഗം നോക്കുന്നു അത് പോലെ തന്നെ G1 ഹരിക്കണം ഡോ a ഡോ R1 ഹരിക്കണം ഡോ aക്ക് തുല്യമായിരിക്കണം ഇത് മതിയായ അവസ്ഥയായി മാറുന്നു ഈ രണ്ട് നിബന്ധനകളും തൃപ്തിപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിള്ളലിന്റെ വിനാശകരമായ ചലനം ഉണ്ടാകൂ മറ്റൊരു പ്രധാന വശവും നമ്മൾ പരിശോധിച്ചു നിങ്ങൾ സിഗ്മ C എന്ന് പറയുമ്പോൾ അനുബന്ധ ക്രിട്ടിക്കൽ ക്രാക്ക് ദൈർഘ്യം എന്താണ് ഇത് a1 അല്ലെങ്കിൽ a1 പ്ലസ് ഡെൽറ്റ a1 ആണോ സിഗ്മ സി ആയി സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് വലിപ്പം 1 വിള്ളലിന് സ്ഥിരമായ ഒടിവ് വിപുലീകരണം ഉണ്ടാകും അതിനുശേഷം അസ്ഥിരമായ ഒടിവുണ്ടാകും അതിനാൽ a1 പ്ലസ് ഡെൽറ്റ a1 ന്റെ വിള്ളൽ നീളം സ്ട്രെസ് സിഗ്മയുടെ നിർണ്ണായക വിള്ളൽ നീളമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വാസ്തവത്തിൽ ഈ തെറ്റായ വ്യാഖ്യാനം കാരണം പല ഒടിവ് കണക്കുകൂട്ടലുകളും തെറ്റായിരുന്നു അതിനാൽ ഇവയെല്ലാം സൂക്ഷ്മമായ കാര്യങ്ങളാണ് അതിനാൽ നിങ്ങൾ നോക്കേണ്ടത് ഗണിതശാസ്ത്രത്തിൽ കൂടുതൽ പ്രവേശിക്കാതെ നേർത്ത പ്ലേറ്റുകളിൽ കാണപ്പെടുന്ന സ്ഥിരതയുള്ള ഒടിവിന്റെ പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു സ്ഥിരതയുള്ള ഒടിവിനെ തുടർന്ന് അസ്ഥിരമായ ഒടിവുണ്ടാകും എന്നാൽ R കർവ് സങ്കൽപ്പത്തിന്റെ കരുത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയും മറ്റ് സൂക്ഷ്മമായ പ്രശ്നങ്ങളും നമ്മൾ പരിശോധിക്കും നിങ്ങൾക്ക് ഊർജ്ജ പ്രകാശന നിരക്ക് ഒരു നേർരേഖയായിരിക്കുമ്പോൾ കാണുക ഇത് മറ്റൊരു വൈരുദ്ധ്യത്തിലേക്ക് നയിക്കുന്നു പൈ സിഗ്മ സ്ക്വയർ aയെ E കൊണ്ട് ഹരിച്ചതിനാൽ നമുക്ക് G എന്ന പദപ്രയോഗമുണ്ട് അതിനാൽ അവയെല്ലാം നേർരേഖകളാണ് ഇപ്പോൾ R ഒരു വക്രമാണ് എനിക്ക് a1 a2 a3 a4 എന്നിങ്ങനെ വ്യത്യസ്ത നീളമുള്ള വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ആനിമേഷൻ വീണ്ടും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അത് നോക്കൂ എങ്ങനെ വ്യത്യസ്തമാണ് വിള്ളൽ ദൈർഘ്യം G യുടെ നിർണായക മൂല്യത്തെ സൂചിപ്പിക്കുന്നു a1 ന്റെ വിള്ളൽ ദൈർഘ്യത്തിന് നിങ്ങൾക്ക് നിർണ്ണായക ഊർജ്ജ പ്രകാശന നിരക്കിന്റെ മൂല്യം G c1 ആയിരിക്കും a2 ന്റെ വിള്ളൽ നീളം നിങ്ങൾക്ക് ഇത് G c2 ആയി ലഭിക്കും a3 ന്റെ ക്രാക്ക് ദൈർഘ്യത്തിന് നിങ്ങൾക്ക് ഇത് G c3 ആയി ലഭിക്കും ഇതിന്റെ ഭംഗിയുള്ള രേഖാചിത്രങ്ങൾ നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ പ്രധാനമാണ് ഇത് വളരെ സൂക്ഷ്മമായ ഒരു ആശയത്തെ ചിത്രീകരിക്കുന്നു ഇത് മനസിലാക്കാൻ ആനിമേഷൻ വളരെ സഹായകരമാണ് a4 ന് നിങ്ങൾക്ക് ഇത് G c4 ആയി ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കുന്നത് വ്യത്യസ്ത പ്രാരംഭ വിള്ളൽ ദൈർഘ്യത്തിനുള്ള വ്യത്യസ്ത നിർണായക ഊർജ്ജ റിലീസ് നിരക്കുകളാണ് നിങ്ങൾക്കറിയാമോ ഇത് സാധ്യമല്ല കാരണം പ്രതിരോധം മെറ്റീരിയലിൽ അന്തർലീനമാണെന്ന് നമ്മൾ പറയുമ്പോൾ മെറ്റീരിയൽ ഏത് തരത്തിലുള്ള വിള്ളലുകൾക്കും സമാനമായ രീതിയിൽ പെരുമാറണം ക്രാക്ക് ദൈർഘ്യത്തിന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി നിങ്ങൾ നോക്കുമ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടി കൂടുതലോ കുറവോ ആയിരിക്കണം അതിനാൽ ഇവിടെ സംഭവിച്ചേക്കാവുന്ന തെറ്റ് എന്താണ് നോക്കൂ ഇവിടെയുള്ള പ്രശ്നങ്ങളിലൊന്ന് നിങ്ങൾ ഒരു കേന്ദ്ര വിള്ളലോടുകൂടിയ അനന്തമായ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് എന്നതാണ് പ്രായോഗികമായി എല്ലാം ഒരു പരിമിത പ്ലേറ്റാണ് ഒന്നും അനന്തമല്ല ഇത് മാത്രമല്ല നിങ്ങൾ ഒരു പ്രത്യേക ക്രാക്ക് നീളത്തിൽ ആരംഭിക്കുന്നു തുടർന്ന് വിള്ളൽ മുന്നേറുന്നു അതിനാൽ വിള്ളൽ മുന്നേറുമ്പോൾ ഊർജ്ജ പ്രകാശന നിരക്കിന്റെ യഥാർത്ഥ കണക്കുകൂട്ടൽ തുടരില്ല കാരണം വിള്ളലിന്റെ നീളം അത് കൂടുന്നതിനനുസരിച്ച് വിള്ളലിന്റെ അഗ്രം മാതൃകയുടെ അരികിൽ അഭിമുഖീകരിക്കുന്നു ക്രാക്ക് ടിപ്പ് മാതൃകയുടെ അരികിലേക്ക് അടുക്കുന്നു അതിനാൽ ഇത് ഊർജ്ജ പ്രകാശന നിരക്കിന്റെ പ്രകടനത്തെ തീർച്ചയായും മാറ്റും വാസ്തവത്തിൽ നമ്മൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ആശയം വികസിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാരാമീറ്ററും നമ്മൾ ഉൾപ്പെടുത്തും ഇത് a ഹരിക്കണം w അനുപാതത്തിന്റെ പ്രവർത്തനമാണ് സമ്മർദ്ദ തീവ്രത ഘടകത്തിനായി നിങ്ങൾക്ക് ഒരു അടിസ്ഥാന പദപ്രയോഗം ഉണ്ടാകും ഒപ്പം നിങ്ങൾക്ക് ഒരു ഗുണിത ഘടകവുമുണ്ടാകും സമാനമായ വരികളിൽ നിങ്ങൾക്ക് ചിന്തിക്കാനാകുന്നത് വിള്ളലിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് ഇത് എക്സ്പ്രഷനായി എനിക്ക് ഉണ്ടാകാൻ കഴിയില്ല ഈ പദപ്രയോഗം വ്യത്യസ്തമായിരിക്കണം അതും രേഖീയമല്ലാത്തതായിരിക്കും ബീറ്റ സ്ക്വയർ പൈ a സിഗ്മ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ലേബൽ ചെയ്യാനാകും കയ്യിലുള്ള പ്രശ്നത്തിന്റെ ഒരു ഘടകമാണിത് ഇത് a ബൈ w അനുപാതത്തിന്റെ പ്രവർത്തനമാണ് നിങ്ങൾ ഇവിടെയെത്തുന്നത് ബീറ്റ സ്ഥിരമല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഇനിമേൽ ഒരു രേഖീയ വ്യതിയാനം ഉണ്ടാകില്ല അത് തന്നെ w ന്റെ ഒരു ഫംഗ്ഷനായി മാറുകയാണ് ചുരുക്കത്തിൽ ഒടിവ് ചിത്രീകരിക്കുന്ന ഒരു രേഖീയമല്ലാത്ത വക്രം നിങ്ങൾക്ക് ഉണ്ടാകും എനിക്ക് ക്രാക്ക് ദൈർഘ്യത്തിന് a4 ഉണ്ട് അനുബന്ധ പരാജയം ഊർജ്ജ റിലീസ് നിരക്ക് G A ആണ് കൂടാതെ a3 ന്റെ ഒരു വിള്ളൽ നീളം അനുബന്ധ നിർണായക ഊർജ്ജ പ്രകാശന നിരക്ക് G B ആണ് അവ പരസ്പരം വളരെ അടുത്താണ് അതേസമയം ഊർജ്ജ പ്രകാശന നിരക്ക് നേർരേഖകളായി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് Gc1 മുതൽ Gc4 വരെ വലിയ വ്യത്യാസമുണ്ട് അതിനാൽ നിങ്ങൾ ഇവിടെ നേടുന്നത് ഊർജ്ജ പ്രകാശന നിരക്ക് ഒരു നോൺ ലീനിയർ ഫംഗ്ഷനാക്കി മാറ്റുന്നത് എല്ലാ വിള്ളൽ നീളങ്ങൾക്കും ഏകദേശം ഒരേ Gc യിലേക്ക് നയിക്കുന്നു അതിനാൽ യഥാർത്ഥ പ്രയോഗത്തിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇത് വിശദീകരിക്കുന്നു യഥാർത്ഥ പ്രയോഗത്തിൽ മെറ്റീരിയൽ പാരാമീറ്റർ നിർദ്ദേശിക്കും നിങ്ങളുടെ കൈവശമുള്ള വിള്ളലുകൾ എന്തുതന്നെയായാലും മെറ്റീരിയൽ പാരാമീറ്റർ സമാനമായിരിക്കും നിങ്ങൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ സാഹിത്യത്തിലേക്ക് പോകുമ്പോൾ ഒരു ഫ്രാക്ചർ ടഫ്നെസ് എന്നറിയപ്പെടുന്ന ഒരു ചിഹ്നം K സഫിക്സ് C നൽകുകയും പ്രത്യേക കട്ടിയുള്ളവയ്ക്ക് ഫ്രാക്ചർ കാഠിന്യം നൽകുകയും ചെയ്യും അല്ലെങ്കിൽ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ കടുപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഭൌതിക സ്വത്തായി സ്ഥിരമായ Kc എഞ്ചിനീയറിംഗ് കാഴ്ചപ്പാടിൽ നിന്ന് ആക്ഷേപകരമല്ല കാരണം അവിടെ വീണ്ടും കാണും നിങ്ങൾ നേർത്ത പാനലുകൾക്കായി പോയാൽ Kc യുടെ മൂല്യം വർദ്ധിക്കുന്നു അതൊരു പ്രത്യേക വശമാണ് എന്നാൽ ആ പ്രത്യേക പാനലിനായി നമുക്ക് നിരവധി ക്രാക്ക് ദൈർഘ്യമുണ്ടെങ്കിൽ പരാജയത്തെ K യുടെ ഒരു നിർണായക മൂല്യം അല്ലെങ്കിൽ G യുടെ ഒരു നിർണായക മൂല്യം നിർണ്ണയിക്കണം അതാണ് ഇവിടെ ശ്രമിക്കുന്നത് അതിനാൽ നിങ്ങൾ നോക്കേണ്ടത് ഊർജ്ജ പ്രകാശന നിരക്കും ഒരു രേഖീയമല്ലാത്ത പ്രവർത്തനമായിരിക്കണം ഈ ആനിമേഷൻ ഞാൻ വീണ്ടും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അതുവഴി ഗ്രാഫുകൾ വരച്ചതെങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ഇപ്പോൾ ക്രാക്ക് 4 നായി നിങ്ങൾക്ക് വരച്ച വരയുണ്ട് നിങ്ങൾക്ക് ഒരു ലീനിയർ അല്ല ഈ ഘട്ടത്തിൽ ഇത് സ്പർശിക്കുന്ന കർവ് ഈ ഘട്ടത്തിൽ G 'R ന്' തുല്യമാണ് G R വളവുകളുടെ ചരിവുകൾ പൊരുത്തപ്പെടുന്നു അതിനാൽ ഒടിവ് അസ്ഥിരത ഇവിടെ സംഭവിക്കും ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ക്രാക്ക് നീളം നോക്കുന്നു ലൈൻ ഇതുപോലെയാണ് അതിനാൽ വ്യത്യസ്ത ക്രാക്ക് ദൈർഘ്യങ്ങൾക്കായി നിങ്ങൾക്ക് G യുടെ സ്ഥിരമായ മൂല്യം ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ G യും രേഖീയമായി വ്യത്യാസപ്പെടുന്നു നോക്കൂ ഇപ്പോൾ നമ്മൾ നേർത്ത പ്ലേറ്റിലേക്ക് നോക്കി നേരത്തെ കട്ടിയുള്ള ഒരു പ്ലേറ്റും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് ഒരു ഇന്റർമീഡിയറ്റ് പ്ലേറ്റുകളിൽ എന്ത് സംഭവിക്കും ഊർജ്ജ പ്രകാശനനിരക്കും പ്രതിരോധവും എന്ന ആശയം നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പൊട്ടുന്ന വസ്തുക്കളിൽ പരാജയം എങ്ങനെ സംഭവിക്കുന്നു ഉയർന്ന ബലം ഉള്ള സോളിഡുകളിൽ പരാജയം എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിജയകരമായി വിശദീകരിച്ചിരിക്കുന്നു നേർത്ത മാതൃകയ്ക്കും കട്ടിയുള്ള മാതൃകയ്ക്കും നമ്മൾ ഇത് കണ്ടു ഇന്റർമീഡിയറ്റ് കനം മാതൃകകളിൽ വളരെ നല്ല പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു പ്രതിഭാസങ്ങളെ പോപ്പ് ഇൻ എന്ന് വിളിക്കുന്നു എന്താണ് ഈ പ്രതിഭാസങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നു വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും ആനിമേഷൻ ചെയ്യും അതിനാൽ ഇത് ഒരു ഇന്റർമീഡിയറ്റ് കനമുള്ള പ്ലേറ്റിനുള്ളതാണ് ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നു വിള്ളൽ മുഖത്ത് അത് കാണിച്ചിരിക്കുന്നു അതിനാൽ എന്ത് സംഭവിക്കുന്നുവെന്ന് കാണുക ഇതാണ് പ്രാരംഭ ക്രാക്ക് ഫ്രണ്ട് നിങ്ങൾക്ക് ലോഡ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ് ഉണ്ട് ഇതിന്റെ ഭംഗിയുള്ള രേഖാചിത്രങ്ങൾ നിർമ്മിക്കുക ത്രിമാന പ്രാതിനിധ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഈ ഗ്രാഫും ക്രാക്ക് ഫ്രണ്ടിൽ എന്ത് സംഭവിക്കും എന്നതും നിങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക ഞാൻ ആനിമേഷൻ ആവർത്തിക്കും നിങ്ങൾ ഒരു ക്ലിക്ക് ശബ്ദം കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ നിങ്ങൾ കണ്ടെത്തുന്നത് വിള്ളൽ ഒരു ലഘുചിത്രമായി മുന്നേറി ഇന്റർമീഡിയറ്റ് കട്ടിയുള്ള പ്ലേറ്റുകളിൽ ഇത് നിരീക്ഷിക്കപ്പെടുന്നു G R എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തോടെ അത്തരമൊരു കാര്യം സാധ്യമാണോ എന്ന് ഒരു വിശദീകരണം കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ ആനിമേഷൻ ആവർത്തിക്കും നിങ്ങൾ വീണ്ടും ശ്രദ്ധയോടെ കേൾക്കുന്നു പെട്ടെന്ന് അത് ചാടി അവിടെ നിർത്തുന്നു ഇത് കൂടുതൽ മുന്നോട്ട് പോകില്ല വിള്ളൽ അവിടെ നിർത്തുന്നു അത് കൂടുതൽ മുന്നോട്ട് പോകില്ല ലഘുചിത്ര വിള്ളലിന്റെ വിശാലമായ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഫ്രാക്ചർ ടഫ്നെസ് പരീക്ഷണത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ക്രാക്ക് വായ തുറക്കൽ സ്ഥാനചലനം എന്നറിയപ്പെടുന്ന അളവാണ് ഈ രണ്ട് മുഖങ്ങളിലെ സ്ഥാനചലനം നിങ്ങൾ അളക്കും അതിനാൽ അത്തരമൊരു ഗ്രാഫിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഘട്ടം ഉണ്ടാകും എന്നിട്ട് നിങ്ങൾക്ക് ഒരു രീതിശാസ്ത്രമുണ്ട് വിള്ളൽ ആരംഭിച്ച ലോഡ് എങ്ങനെ കണ്ടെത്താം അത് ചെയ്യും വീണ്ടും ഞാൻ ആനിമേഷൻ ആവർത്തിക്കും അത് നോക്കൂ കൂടാതെ ഇത് രേഖപ്പെടുത്തുക P CMOD യ്ക്കെതിരായി എങ്ങനെ ഗ്രാഫ് കാണപ്പെടുന്നു എന്നത് വളരെ പ്രധാനമാണ് അതിനാൽ ഇത് പരീക്ഷണാത്മകമായി നിരീക്ഷിച്ച പ്രതിഭാസമാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ആനിമേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ക്ലിക്ക് ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിലാണ് ഇത് വളരെ ചെറിയ അളവിലുള്ള ശബ്ദമാണ് വാസ്തവത്തിൽ അക്കോസ്റ്റിക് എമിഷൻ എന്ന് വിളിക്കപ്പെടുന്ന നോൺഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്കുകളിലൊന്നിൽ അവർ ഈ ശബ്ദം പിടിച്ചെടുക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ഘടനയുള്ളപ്പോൾ വിള്ളൽ മുന്നേറുമ്പോൾ ഈ ചെറിയ ശബ്ദങ്ങൾ അന്വേഷണം വഴി പിടിച്ചെടുക്കും ഈ ഘടനയിൽ വിള്ളൽ എവിടെയാണെന്നും ഏത് ഓറിയന്റേഷൻ ഏത് നീളം മുതലായവ കണ്ടെത്താനും അവർക്ക് കഴിയും അതിനാൽ വിള്ളലുകൾ നിരീക്ഷിക്കുന്നതിനുള്ള നോൺഡിസ്ട്രക്റ്റീവ് രീതിശാസ്ത്രത്തിന്റെ ഒരു പുതിയ ശാഖ വളർന്നു എന്നാൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഒരു പുല്ല് സ്റ്റാക്കിൽ ഒരു സൂചി തിരയുന്നത് പോലെയാണ് കാരണം നിങ്ങൾക്ക് വിവിധ ഉറവിടങ്ങളിൽ നിന്ന് ശബ്ദമുണ്ടാകാം അതിനാൽ ഡാറ്റാ പ്രോസസ്സിംഗിനായി എഞ്ചിനീയർമാർ ഏത് തരത്തിലുള്ള സമീപനമാണ് ഉപയോഗിക്കേണ്ടതെന്ന് വിജയകരമായി കണ്ടെത്തിയതായി നിങ്ങൾ കണ്ടെത്തി അതിനാൽ രസകരമായ കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെറിയ സൂചനകൾ കണ്ടെത്തുകയാണെങ്കിൽ എഞ്ചിനീയർമാർ അത് സാധ്യമായ പരിധി വരെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാണ് ഇപ്പോൾ പോപ്പ് ഇൻ എന്താണെന്ന് നമ്മൾ കണ്ടു എന്നതാണ് നമ്മുടെ ആശങ്ക ഇത് നോൺഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് രീതികളിലൊന്നിലും ഉപയോഗിക്കുന്നു R കർവ് സങ്കൽപ്പത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നമുക്ക് ഇത് വിശദീകരിക്കാൻ കഴിയണം അതിനാൽ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിയായ ദിശയിലേക്ക് പോകുന്നുവെന്ന ആത്മവിശ്വാസം അത് നൽകും അതിനാൽ ഇതാണ് സംഭവിക്കുന്നത് ഇത് എളുപ്പത്തിൽ വിശദീകരിക്കാം അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് R വക്രത്തിന്റെ ആകൃതി നോക്കുക പൊട്ടുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ നമുക്ക് സ്ഥിരമായി R ഉണ്ടായിരുന്നു കാരണം ഇത് ഉപരിതല ഊർജ്ജം മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിന് കാരണമാകുന്നത് അതിനാൽ അത് സ്ഥിരമായി തുടർന്നു G R ന് തുല്യമാകുമ്പോൾ ഒടിവ് ആരംഭിക്കുക മാത്രമല്ല അത് ഒരു അസ്ഥിരതയും ആണെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞു നിങ്ങൾ ഒരു പ്ലെയിൻ സ്ട്രെയിൻ സ്പെസിമെനായി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഴമില്ലാത്ത R ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു തലം സമ്മർദ്ദ മാതൃകയ്ക്കായി പോയപ്പോൾ നിങ്ങൾക്ക് കുത്തനെയുള്ള R ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു ഇന്റർമീഡിയറ്റ് കനം മാതൃകയ്ക്കായി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു തിരശ്ചീനമായ R ഉണ്ടായിരിക്കാം ഘട്ടം തുടർന്ന് കർവ് ആരംഭിക്കുന്നു അതിനാൽ സംഭവിക്കുന്നത് ഒടിവ് ആരംഭിക്കുകയും അത് ചാടുകയും ചെയ്യും അതിനാൽ ഇതാണ് സംഭവിക്കുന്നത് അതിനാൽ R കർവ് ആശയം ഉപയോഗിച്ച് യഥാർത്ഥ പ്രയോഗത്തിൽ എന്താണ് കാണുന്നതെന്ന് വിശദീകരിക്കാനുള്ള ഒരു സ്ഥാനത്താണ് നമ്മൾ അതിനാൽ നമ്മൾ ശരിയായ ദിശയിലാണെന്ന് ഇതിനർത്ഥം നേർത്ത മാതൃകകൾ കട്ടിയുള്ള മാതൃകകൾ ഇന്റർമീഡിയറ്റ് മാതൃകകൾ എന്നിവയ്ക്കായി നമുക്ക് കാണാൻ കഴിഞ്ഞു നിങ്ങളുടെ വ്യക്തതയ്ക്കായി ഞാൻ വീണ്ടും ആനിമേഷൻ ആവർത്തിക്കും അതിനാൽ ഇതാണ് സംഭവിക്കുന്നത് അതിനാൽ സമ്മർദ്ദ നില വർദ്ധിക്കുമ്പോൾ ഒടിവ് അസ്ഥിരത പിന്തുടരും അതിനാൽ നമ്മൾ ശരിയായ ദിശയിലാണെന്ന് കാണിക്കുന്ന മറ്റൊരു ഉദാഹരണമാണിത് ഇത് നമ്മുടെ നിഗമനത്തിലെത്തിക്കുന്നു ഊർജ്ജ പ്രകാശന നിരക്കിൽ നാം കാണാൻ ആഗ്രഹിച്ച എല്ലാ ആശയങ്ങളും ക്രാക്ക് ടിപ്പിന്റെ സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ എന്നിവ വികസിപ്പിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഈ അധ്യായത്തിലേക്ക് മടങ്ങും കാരണം സമ്മർദ്ദ തീവ്രത ഘടകവും ഊർജ്ജ പ്രകാശന നിരക്കും തമ്മിലുള്ള ഒരു ഐഡന്റിറ്റി കണ്ടെത്തേണ്ടതുണ്ട് കേന്ദ്ര വിള്ളൽ ഉപയോഗിച്ച് അനന്തമായ പ്ലേറ്റിനായി നമ്മൾ നടത്തിയ ഊർജ്ജ പ്രകാശന നിരക്ക് കണക്കാക്കൽ ഏകദേശമാണെന്ന് നമ്മൾ പറഞ്ഞു കാരണം നമ്മൾ നേരിട്ട് മൂല്യം എടുക്കുകയോ സാമ്യതയിലേക്ക് നോക്കുകയോ ചെയ്തു നമ്മൾ യഥാർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞതല്ല അത് നമ്മൾ ആ ഡെറിവേഷൻ ആ സമയത്ത് ചെയ്യും ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അവസാന ക്ലാസിലാണ് നമ്മൾ നിങ്ങൾ മാതൃകകൾ കൊണ്ടുവരേണ്ട ഒരു പ്രശ്നം നോക്കിയത് ഒന്നിലധികം വിള്ളൽ സാഹചര്യങ്ങളിൽ മാതൃക എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുക ആദ്യം നമുക്ക് മാതൃക നോക്കാം ഈ മാതൃക ഇതുപോലെയായിരുന്നു നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങൾക്ക് ഒരു നേർത്ത കടലാസ് ഉണ്ടായിരുന്നു കാരണം ഇത് ഒരു മാതൃകയായി കൊണ്ടുവരുന്നത് നമുക്ക് എളുപ്പമാണ് നിങ്ങൾക്ക് ഒരു കേന്ദ്ര വിള്ളൽ ഉണ്ടായിരുന്നു വ്യക്തതയ്ക്കായി ഇത് ഒരു കട്ടിയുള്ള വരയായി കാണിക്കുന്നു വിള്ളൽ അദൃശ്യമായിരിക്കും സെൻട്രൽ ക്രാക്കിൽ നിന്ന് വളരെ അകലെയാണ് നിങ്ങൾക്ക് എഡ്ജ് വിള്ളലുകൾ ഇവ 8 5 മില്ലിമീറ്ററിന് തുല്യമായി കാണിക്കുന്നു അവ മൊത്തം സെൻട്രൽ ക്രാക്കിനേക്കാൾ 17 മില്ലിമീറ്റർ കുറവാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് 3 മാതൃകകൾ കൊണ്ടുവരാൻ ആണ് ഒരു മാതൃകയിൽ 9 5 മില്ലിമീറ്റർ വലുപ്പമുള്ള എഡ്ജ് വിള്ളലുകൾ ഉണ്ടാകും ആകെ 19 മില്ലിമീറ്റർ അതായത് എഡ്ജ് വിള്ളലുകൾ നിങ്ങൾ അവയെ ഒരുമിച്ച് ചേർത്താൽ അത് സെൻട്രൽ ക്രാക്കിനേക്കാൾ ദൈർഘ്യമേറിയതാണ് നിങ്ങൾക്ക് 9 മില്ലിമീറ്ററുള്ള മറ്റൊരു മാതൃക ഉണ്ടായിരുന്നു നിങ്ങൾ അവ ചേർക്കുകയാണെങ്കിൽ വിള്ളലിന്റെ നീളം സെൻട്രൽ ക്രാക്കിന് തുല്യമാണ് മൂന്നാമത്തെ കേസ് ഇരട്ട എഡ്ജ് വിള്ളലാണ് മൊത്തം നീളം സെൻട്രൽ ക്രാക്കിനേക്കാൾ ചെറുതാണ് ഇപ്പോൾ നമ്മൾ 9 5 മില്ലിമീറ്റർ ഇരട്ട എഡ്ജ് ക്രാക്ക് ഉപയോഗിച്ച് മാതൃക എടുക്കും നിങ്ങൾ മാതൃക എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പെൻസിൽ തിരുകുക ശ്രദ്ധാപൂർവ്വം ലോഡുചെയ്യുക പരാജയം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തയ്യാറാണോ നിങ്ങൾ മാതൃക നേരെയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു മാതൃക നേരെയാക്കുക ശരി മാതൃക നേരെയാക്കി ഏകതാനമായി പ്രയോഗിക്കുക ലോഡ് ഒരേപോലെ പ്രയോഗിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ മാതൃക തകർക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ മാതൃക തകർക്കുക ശരി എത്ര പേർക്ക് ഇരട്ട എഡ്ജ് വിള്ളൽ പരാജയപ്പെട്ടുവെന്ന് പറയാമോ നിങ്ങളുടെ കൈകള് ഉയര്ത്തുക അതിനാൽ ഞാൻ 1 2 3 4 5 6 കണ്ടെത്തുന്നു അതിനാൽ ഇത് വ്യക്തമാണ് കാരണം ഈ ഉദാഹരണത്തിൽ നമുക്ക് ഏറ്റവും ദൈർഘ്യമേറിയ വിള്ളൽ ഇരട്ട എഡ്ജ് ക്രാക്ക് ആയിരുന്നു ചില ആളുകൾക്ക് ഇരട്ട എഡ്ജ് ക്രാക്കായി ഫലം ലഭിച്ചിട്ടില്ല കാരണം നിങ്ങൾ കൈകൊണ്ട് പരീക്ഷണം നടത്തുകയാണെന്ന് നിങ്ങൾക്കറിയാം മാത്രമല്ല ലോഡ് ഒരേപോലെ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നോക്കൂ പരീക്ഷണത്തിൽ മാതൃക നിർമ്മിക്കുന്ന ഓരോ ഘട്ടത്തിലും നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം വിള്ളൽ വരുത്തുമ്പോൾ നിങ്ങൾക്ക് ജാഗ്രത പുലർത്താനും ലോഡ് പ്രയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരിക്കാനും കഴിയില്ല കാരണം നിങ്ങൾ വിള്ളൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വളരെ മൂർച്ചയുള്ള ബ്ലേഡ് എടുത്ത് വളരെ ശ്രദ്ധാപൂർവ്വം ഉണ്ടാക്കണം കാരണം ക്രാക്ക് ടിപ്പ് വളരെ പ്രധാനമാണ് പിന്നീട് ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതാണോ എന്ന് കാണാൻ പോകുന്നു ഇത് ഫ്രാക്ചർ മെക്കാനിക്സിൽ സഹായകരമാണ് അതാണ് അവർക്ക് സംഭവിച്ചത് ക്രാക്ക് ടിപ്പ് ശരിയായി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മാതൃകയുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും അതിനാൽ സെൻട്രൽ ക്രാക്കിനേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ള ഇരട്ട എഡ്ജ് ക്രാക്ക് ഉള്ളപ്പോൾ ഒടിവ് അവിടെ ആരംഭിക്കും ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ മാതൃക നോക്കാം സെന്റർ എഡ്ജ് ഇരട്ട എഡ്ജ് വിള്ളലുകളുടെ ആകെത്തുക എന്നിവ തുല്യ വലുപ്പമുള്ള രണ്ടാമത്തെ മാതൃക എടുക്കുക ഇപ്പോൾ അവ നേരെ പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകീകൃത ലോഡ് തിരശ്ചീനമായി പ്രയോഗിക്കാൻ കഴിയും അത് പരീക്ഷിക്കുക ഇതെല്ലാം പരീക്ഷണവും പിശകും ആണ് കൊള്ളാം ഏത് വിള്ളൽ തകർന്നുവെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇരട്ട എഡ്ജ് വിള്ളൽ തകർന്നിടത്ത് കൈകൾ ഉയർത്താമോ നിങ്ങളിൽ എത്രപേർക്ക് ഇത് ലഭിച്ചു 1 2 3 6 അല്ലെങ്കിൽ 7 വിദ്യാർത്ഥികളിൽ 3 പേർക്ക് മാതൃകകൾ തകർന്നിട്ടുണ്ട് മറ്റുള്ളവ നിങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞില്ല ഇരട്ട എഡ്ജ് ക്രാക്ക് അല്ലെങ്കിൽ സെന്റർ ക്രാക്ക് ഇരട്ട എഡ്ജ് ആർക്കെങ്കിലും സെന്റർ ക്രാക്ക് ബ്രേക്കിംഗ് ലഭിച്ചാലോ അതിനാൽ അത്തരം ചിതറലുകൾ അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ മാത്രമാണ് ശരിയായ പരീക്ഷണം നടത്തുന്നത് പക്ഷേ വലിയതോതിൽ നിങ്ങൾ ഈ സാഹചര്യത്തിൽ പോലും നോക്കുകയാണെങ്കിൽ ആദ്യം ഇരട്ട എഡ്ജ് വിള്ളൽ മാത്രമാണ് വേർതിരിക്കുന്നത് അതിനാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ഒരു ഘടനയിൽ നമുക്ക് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടെങ്കിലും അത് നിർണ്ണായകമാണ് അത് ഘടനയുടെ പ്രകടനത്തെ ബാധിക്കും അതിനാൽ ഒരൊറ്റ വിള്ളൽ എടുക്കുന്നതിലും നമ്മുടെ ഗണിതശാസ്ത്രം വികസിപ്പിക്കുന്നതിലും നമ്മൾ ന്യായീകരിക്കപ്പെടുന്നു അതിലൂടെ ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാം ഇപ്പോൾ അവസാനത്തെ മാതൃക നമ്മൾ എടുക്കും നിങ്ങൾ മാതൃക വളരെ ശ്രദ്ധാപൂർവ്വം ഉണ്ടാക്കി ലോഡ് വളരെ ശ്രദ്ധാപൂർവ്വം പ്രയോഗിച്ചില്ലെങ്കിൽ മാതൃക പെരുമാറേണ്ട രീതിയിൽ പെരുമാറില്ല അതിനാൽ ഞാൻ കാണട്ടെ നിങ്ങൾ മാതൃക തകർക്കാൻ തുടങ്ങുക മാതൃക തകർക്കാൻ ആരംഭിക്കുക നിങ്ങൾക്ക് എവിടെ നിന്ന് മാതൃക തകർന്നു അത് കൊള്ളാം അപ്പോൾ ഏതാണ് എത്ര പേർക്ക് സെൻട്രൽ ക്രാക്ക് ലഭിച്ചു എത്ര പേർക്ക് ഇരട്ട എഡ്ജ് ക്രാക്ക് ലഭിച്ചു സെൻട്രൽ ക്രാക്ക് നിങ്ങൾ കൈകൾ ഉയർത്തുന്നു അതിനാൽ എനിക്ക് 1 2 3 4 ഉണ്ട് ഇരട്ട എഡ്ജ് ക്രാക്ക് 1 2 3 അതിനാൽ ഈ കേസിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രമേ മികച്ച മാതൃക ലഭിച്ചിട്ടുള്ളൂ നോക്കൂ പിന്നീട് സ്ട്രെസ് തീവ്രത ഘടകം കണക്കാക്കുന്നതിനുള്ള രീതിശാസ്ത്രങ്ങൾ നമുക്ക് ലഭിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം പരിമിതമായ മാതൃകകളാണ് ബാച്ച് പേപ്പർ ഞാൻ അവർക്ക് നൽകിയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം ഓരോരുത്തരും അവരവരുടെ ഗുണനിലവാരമുള്ള കടലാസ് കൊണ്ടുവന്നിരുന്നു അതിനാൽ വ്യതിയാനമുണ്ടാകുകയും മാതൃകകൾ വ്യക്തിഗത വിദ്യാർത്ഥികൾ നിർമ്മിക്കുകയും ചെയ്യും വ്യത്യാസവും ഉണ്ടാകാം നിങ്ങൾ പരീക്ഷണം ശ്രദ്ധാപൂർവ്വം നടത്തിയില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ പോലും ഇരട്ട എഡ്ജ് ക്രാക്ക് മാത്രമേ പരാജയപ്പെടുകയുള്ളൂ കാരണം സ്ട്രെസ് തീവ്രത ഘടകം സെൻട്രൽ ക്രാക്കിനേക്കാൾ അല്പം വലുതായിരിക്കും അതിനാൽ ഞാൻ ലോഡ് വർദ്ധിപ്പിക്കുമ്പോൾ ഇരട്ട എഡ്ജ് ക്രാക്കിൽ സമ്മർദ്ദ തീവ്രത ഘടകം നിർണായകമാകും അതിനാൽ സാമാന്യബുദ്ധി പരാജയപ്പെടുന്നു നിങ്ങൾ കണ്ടെത്തുന്നത് ഒരു വിള്ളൽ ശാരീരികമായി ചെറുതായിരിക്കാം പക്ഷേ യഥാർത്ഥ ഘടനയിൽ ഏത് കോൺഫിഗറേഷൻ ലഭ്യമാണ് എന്നതും പ്രധാനമാണ് എനിക്ക് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടെങ്കിലും അവ അകലെയാണെങ്കിൽ നമ്മൾ ഇതിനകം മറ്റൊരു ഉദാഹരണം കണ്ടു എന്നതും ഇത് നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്നു സമ്മർദ്ദമുള്ള കട്ടിയുള്ള സിലിണ്ടറിൽ നിരവധി വിള്ളലുകൾ നമ്മൾ കണ്ടു കുറച്ച് മില്ലിമീറ്റർ അകലെയാണെങ്കിലും വലിയ ഇടപെടലുകളൊന്നുമില്ലെന്നും നമ്മൾ കണ്ടെത്തി അതിനാൽ ഗണിതശാസ്ത്രത്തെ സുഖകരമായി വികസിപ്പിക്കുന്നതിന് ഒരൊറ്റ വിള്ളലിനായി ഫ്രാക്ചർ മെക്കാനിക്സ് പഠിക്കുന്നതിൽ നമുക്ക് ന്യായമുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ എന്നിവയെക്കുറിച്ചുള്ള അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മെറ്റീരിയലുകളുടെ ശക്തിയിലും ഇലാസ്തികത സിദ്ധാന്തത്തിലും നമ്മൾ ആശയങ്ങൾ അവലോകനം ചെയ്യുന്നതാണ് നല്ലത് ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഫീൽഡുകൾക്കുള്ള പരിഹാരത്തിലേക്ക് പ്രവേശിക്കുക ഇപ്പോൾ മെറ്റീരിയലുകളുടെ കരുത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കാം ഇവിടെയുള്ള ഓരോ പ്രസ്താവനയും പ്രധാനമാണ് ആദ്യം ലഭിക്കുന്നത് ലളിതമായ പ്രശ്നങ്ങൾക്കുള്ള അടച്ച മാതൃക പരിഹാരം എന്നറിയപ്പെടുന്നവ നിങ്ങൾക്ക് ലഭിക്കും അടച്ച മാതൃക പരിഹാരം എന്താണ് ഡൊമെയ്നിലെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് സ്ട്രെസ് മാഗ്നിറ്റ്യൂഡുകളുടെ മൂല്യങ്ങൾ ലഭിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചത് ഞാൻ ഒരു ടെൻഷൻ സ്ട്രിപ്പ് എടുക്കുന്നുവെന്ന് കരുതുക പ്രശ്നം വളരെ ലളിതമാണ് ലോഡിംഗ് പോയിന്റുകളിൽ നിന്ന് അകലെ നിങ്ങൾക്ക് സാധാരണ സമ്മർദ്ദങ്ങൾ ലഭിക്കുന്നു എല്ലായിടത്തും സിഗ്മ സ്ഥിരമാണ് ക്രോസ് സെക്ഷൻ സ്ഥിരമാണെങ്കിൽ ലോഡ് ആകർഷകമാണെങ്കിൽ അത് എല്ലായിടത്തും സ്ഥിരമായിരിക്കും അതിനാൽ ഏതെങ്കിലും x y സ്ഥാനം നിങ്ങൾക്ക് പരിഹാരത്തിൽ നിന്ന് ഉത്തരം ഉണ്ട് അതുപോലെ നിങ്ങൾ വളയാൻ പോകുമ്പോൾ നിങ്ങൾ വളയാൻ പോകുമ്പോൾ ലോഡിംഗ് പോയിന്റുകളിൽ നിന്ന് അകലെ നിങ്ങൾ സെൻട്രൽ സോണിലേക്ക് നോക്കുകയാണെങ്കിൽ ബീമിന്റെ ആഴത്തെക്കാൾ സമ്മർദ്ദത്തിന്റെ വ്യതിയാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും x y z ന്റെ ഏതെങ്കിലും മൂല്യം ഞാൻ വ്യക്തമാക്കുകയാണെങ്കിൽ ഇവിടെ x y z അല്ല x y മാത്രം ഞാൻ സമ്മർദ്ദങ്ങളുടെ പൂർണ്ണ വ്യാപ്തി കണ്ടെത്താനുള്ള ഒരു സ്ഥാനത്ത് ആയിരിക്കും പ്രശ്നമില്ല എല്ലാത്തിനും നിങ്ങൾ എന്തുതരം അനുമാനമാണ് നടത്തിയത് മെറ്റീരിയലുകളുടെ കരുത്തിൽ നിങ്ങൾ വരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട അനുമാനം ലോഡ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും തലം വിഭാഗങ്ങൾ നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾ എന്താണ് നേടിയത് നോക്കൂ മെറ്റീരിയലുകളുടെ ശക്തിയുടെ മുഴുവൻ ഗതിയും നോക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നു സോളിഡ് മെക്കാനിക്സിലെ ആദ്യ ലെവൽ കോഴ്സാണിത് സ്ഥാനചലനങ്ങളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അനുമാനം നൽകി നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്നത് ഒഴിവാക്കാനാകും ലോഡുചെയ്യുന്നതിന് മുമ്പും ശേഷവും തലം വിഭാഗങ്ങൾ തലമായി തുടരുന്നു നിങ്ങൾ എന്തു ചെയ്തു മെലിഞ്ഞ അംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾ മെലിഞ്ഞ അംഗങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഏതുതരം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ശ്രദ്ധാപൂർവ്വം പരിശോധിച്ചു വൃത്താകൃതിയിലുള്ള ഷാഫ്റ്റിന്റെ വളയുന്നതിനോ അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നതിനോ ഉള്ള ഒരു ബീമിൽ നിങ്ങൾ സ്ട്രെസ് ഫീൽഡ് വിലയിരുത്തി നോക്കൂ ഞാൻ ഈ മാതൃക കൊണ്ടുവന്നു ഇത് ചതുരാകൃതിയിലാണ് എനിക്കത് വളച്ചൊടിക്കാനും കഴിയും ആദ്യ ലെവൽ കോഴ്സിൽ ചതുരാകൃതിയിലുള്ള ഷാഫ്റ്റ് വളച്ചൊടിക്കുന്നത് നിങ്ങൾ പരിഹരിക്കുന്നില്ല നിങ്ങൾ അത് മാറ്റിവച്ചു നിങ്ങൾ ടോർഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ചോദ്യം പോലും ചോദിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഒരു ചതുരാകൃതിയിലുള്ള ഷാഫ്റ്റിന്റെ ടോർഷൻ പരിഗണിക്കാത്തത് ഞാൻ അത് എടുത്ത് വളയ്ക്കുന്നുവെന്ന് കരുതുക നിങ്ങൾക്ക് നോക്കാം ഞാൻ വളയുമ്പോൾ നിങ്ങൾ ഇവിടെ വളരെ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ വരികൾ ലംബമായി തുടരുന്നതെങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവ കറങ്ങുന്നു തലം വിഭാഗങ്ങൾ തലം തന്നെ അവ മാറുന്നില്ല അവ മാറുന്നേയില്ല അതിനാൽ അതാണ് നേട്ടം മെറ്റീരിയലുകളുടെ ശക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഈ സുപ്രധാന അനുമാനം ഉണ്ടാക്കി ഒരു തരം ക്രോസ് സെക്ഷൻ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവാണ് അതും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായിച്ചു അവസാന ലോഡുള്ള ഒരു കാന്റിലിവർ ബീം പോലും ബീമിലെ ക്രോസ് സെക്ഷൻ ഒരു തലത്തിൽ നിലനിൽക്കില്ലെന്ന് പലർക്കും അറിയില്ലായിരിക്കാം എന്താണ് വ്യത്യാസം നോക്കൂ ശുദ്ധമായ വളവിന് കീഴിലുള്ള ബീം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും തിരിച്ചുപോയി മെറ്റീരിയൽ കോഴ്സ് വികസനത്തിന്റെ കരുത്ത് കാണുകയാണെങ്കിൽ നാല് പോയിന്റ് വളയലിനു കീഴിലുള്ള ഒരു ബീമിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫ്ലെക്ചർ ഫോർമുല വികസിപ്പിച്ചെടുക്കുമായിരുന്നു ഇത് സ്ഥിരമായി വളയുന്ന നിമിഷം മാത്രം നൽകുന്നു ബീമുകളുടെ നീളത്തിൽ നിങ്ങൾ സമ്മർദ്ദങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു കാന്റിലിവറിൽ പോകുന്ന നിമിഷം എനിക്ക് എഡ്ജ് ലോഡ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് നീളത്തിനനുസരിച്ച് ബെൻഡിങ് മോമെന്റ്റ് വ്യത്യാസപ്പെടുന്നു പക്ഷേ കത്രിക ഷിയർ ശക്തി സ്ഥിരമായി തുടരുന്നു അതിനാൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾ വളയുന്നതും കത്രിക്കുന്നതും ആണ് മാത്രമല്ല നിരവധി ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും ലളിതമായ ബീം ഇതാണ് നിങ്ങൾ എന്തു ചെയ്തു ഇതിനായി നിങ്ങൾ ഫ്ലെക്ചർ ഫോർമുല മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല ഇതിനായുള്ള നിങ്ങളുടെ സമവാക്യങ്ങൾ നിങ്ങൾ ഉരുത്തിരിഞ്ഞില്ല പക്ഷേ സമവാക്യം പൂർണ്ണമായും ബാധകമാണെന്ന് കരുതി നിങ്ങൾ ഇപ്പോഴും ഫ്ലെക്ചർ ഫോർമുല ഉപയോഗിച്ചു ഇത് എങ്ങനെ ബാധകമാകും നിങ്ങൾക്ക് കത്രിക വരുമ്പോൾ വിഭാഗങ്ങൾ എങ്ങനെ മാറുന്നു നമുക്ക് അത് പരിശോധിക്കാം ഇപ്പോൾ എനിക്ക് ഒരു ചതുരാകൃതിയിലുള്ള ബീമിലെ ഒരു ഭാഗം ഉണ്ട് ചിത്രീകരണത്തിനായി ഞാൻ രണ്ട് വിഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് കത്രിക കാരണം തലം വിഭാഗങ്ങൾ മാറുന്ന രീതി നമ്മൾ പരിശോധിക്കാൻ പോകുന്നു ഇത് ഇതുപോലുള്ള കത്രിക ലോഡിംഗിന് വിധേയമാണ് നിങ്ങൾ മനസിലാക്കുക കത്രിക ലോഡിംഗ് സ്ഥിരമാണ് നിരന്തരമായ ഷിയർ ലോഡിംഗ് മാത്രമാണ് ഞാൻ നോക്കുന്നത് മെറ്റീരിയലുകളുടെ കരുത്ത് നിങ്ങൾ നന്നായി പഠിച്ചുവെന്ന തോന്നൽ ഉള്ളതിനാൽ അതിന്റെ ഒരു രേഖാചിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ട് ഫ്രാക്ചർ മെക്കാനിക്സിൽ ഞാൻ ഒരു കോഴ്സ് വികസിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുന്നു എന്താണ് പരിഹാര വികസനം ആളുകൾ ചൂണ്ടിക്കാണിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും എന്താണ് ഈ ബുദ്ധിമുട്ടുകൾ എങ്ങനെ പരിഹരിച്ചു വാസ്തവത്തിൽ അതിർത്തിയിലെ അവസ്ഥയിൽപ്പോലും ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ എന്നിവ പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരു വിശാലമായ ചർച്ച നടത്താൻ പോകുന്നു അതിനാൽ നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മെറ്റീരിയലുകളുടെ കരുത്ത് നോക്കാം അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മെറ്റീരിയലുകളുടെ ശക്തിയിൽ നിങ്ങൾ ഒരു അനുമാനം ഉണ്ടാക്കുന്നു ലോഡ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും തലം വിഭാഗങ്ങൾ തലം തുടരുന്നു എനിക്ക് സ്ഥിരമായ കത്രിക ഉണ്ടാകുമ്പോഴും അത് ലംഘിക്കപ്പെടുന്നു ഇത് എങ്ങനെ ദൃശ്യമാകും എനിക്ക് നിരന്തരമായ കത്രിക ഉള്ളപ്പോൾ നിങ്ങൾ ഈ വരികൾ മാറ്റി ഇത് ഒരു നേർരേഖയല്ല അത് ഒരു വക്രമാണ് ഇതൊരു വക്രമാണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് നിരന്തരമായ കത്രികയുടെ ലളിതമായ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ അനുമാനം സാധുവല്ല ആ ഫലം ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുന്നത് ഒരു ആശ്വാസമുണ്ട് എഞ്ചിനീയർമാർ എല്ലായ്പ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അവർ ഒരു പരിഹാരം വികസിപ്പിക്കും പ്രായോഗിക പ്രശ്നങ്ങൾക്ക് ബാധകമാക്കാൻ ശ്രമിക്കുക ആവശ്യമെങ്കിൽ തിരുത്തൽ ഘടകങ്ങൾ കൊണ്ടുവരിക നിങ്ങളുടെ അനലിറ്റിക്കൽ മെത്തഡോളജി ഉപയോഗിച്ച് പ്രശ്നം മുഴുവനായും പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ തിരുത്തൽ ഘടകങ്ങൾ ശരിക്കും സഹായിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ ഒരു സ്പർ ഗിയർ പല്ലിന്റെ രൂപകൽപ്പന നോക്കുമ്പോൾ അത് ഒരു കാന്റിലിവർ ബീം ആയി കണക്കാക്കുകയും നിങ്ങൾ ഒരു ലൂയി ഘടകം പോലെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഈ ഘടകം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം അതിനാൽ യഥാർത്ഥ പരിഹാരത്തിൽ തലം വിഭാഗങ്ങൾ തലം ആയി തുടരുമെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു പക്ഷേ വാസ്തവത്തിൽ ഇത് ഒരു വക്രമാണ് നമ്മൾ വീണ്ടും ഈ ആനിമേഷൻ നോക്കും ഇത് യഥാർത്ഥത്തിൽ ഇതുപോലെയായിരുന്നു തുടർന്ന് കത്രിക ബലപ്രയോഗം നടത്തിയ ശേഷം വിഭാഗങ്ങൾ ഇതുപോലെ രൂപഭേദം വരുത്തിയതായി നിങ്ങൾ കണ്ടെത്തും രണ്ട് വരികൾ രണ്ട് നീല വരകളും രണ്ട് തവിട്ട് വരകളും തമ്മിലുള്ള ദൂരം നോക്കുകയാണെങ്കിൽ അവ അതേപടി തുടരും കത്രികയുടെ സ്വാധീനം ക്രോസ് സെക്ഷനെ ബാധിക്കുന്നില്ലെന്ന് നോക്കൂ അതിനാൽ കത്രികയും വളയലും വിച്ഛേദിക്കപ്പെടുന്നു അവ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല അതിനാൽത്തന്നെ വളയുന്ന സമ്മർദ്ദം കണക്കാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഫ്ലെക്ചർ ഫോർമുല ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് സ്ഥിരമായ കത്രിക ഉള്ളിടത്തോളം കാലം ഫ്ലെക്ചർ ഫോർമുല സാധുവാണ് പല പ്രായോഗിക സാഹചര്യങ്ങളിലും സംഭവിക്കുന്ന ബീമിന്റെ നീളത്തിൽ ഇത് ഒരു വേരിയബിൾ ഷിയർ ഫോഴ്സാണെങ്കിൽ നിങ്ങളുടെ വിശകലനം ഏകദേശമാണ് ദയവായി ഒരു കുറിപ്പ് ഉണ്ടാക്കുക ഇത് വളരെ പ്രധാനമാണ് അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് കത്രിക ലോഡിംഗ് മൂലമുണ്ടാകുന്ന രൂപഭേദം ആഴത്തിലുള്ള ബീമുകളിൽ മാത്രമേ പ്രാധാന്യമുള്ളൂ അതിനാൽ ആഴത്തിലുള്ള ബീമുകളിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുന്നു അതിനാൽ സാധാരണയായി മെറ്റീരിയലുകളുടെ കരുത്തിൽ ഒരു കോഴ്സിൽ ഈ പ്രഭാവം അവഗണിക്കപ്പെടും എന്നാൽ നല്ല പുസ്തകങ്ങൾ പദം ബീമുകളുടെ മെറ്റീരിയൽ വിശകലനത്തിന്റെ കരുത്ത് വളയത്തിനും കത്രികയ്ക്കും വിധേയമായി ബീമുകളുടെ എഞ്ചിനീയറിംഗ് വിശകലനം ഉണ്ട് ഇതിനെ ബീമുകളുടെ വിശകലനം എന്ന് വിളിക്കില്ല നിങ്ങൾ എഞ്ചിനീയറിംഗ് കൊണ്ടുവരുന്ന നിമിഷം ഏകദേശക്കണക്കുകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ നിങ്ങൾ ഏകദേശ കണക്കുകൾ നോക്കുകയാണ് അതിനാൽ ഏകദേശ കണക്കില്ലാതെ എഞ്ചിനീയറിംഗ് ഇല്ല അതിനാൽ ലളിതമായ വളവുകളിൽ പോലും മെറ്റീരിയലുകളുടെ ശക്തിയുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ വിട്ടുവീഴ്ച ചെയ്തുവെന്ന് ഇത് വിശദീകരിക്കുന്നു ഇപ്പോൾ ഞാൻ ഇലാസ്തികത സംബന്ധിച്ച സിദ്ധാന്തം സ്വീകരിക്കുന്നതിനുമുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ഒരു പൊതു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യ അസൈൻമെന്റ് ഷീറ്റിൽ നമുക്ക് സോളിഡ് മെക്കാനിക്സിന്റെ ഒരു അവലോകനം ഉണ്ടായിരുന്നു ചോദിച്ച പ്രശ്നങ്ങളിലൊന്ന് ഒരു സ്വതന്ത്ര ഉപരിതലത്തിന്റെ നിർവചനം എന്താണ് സംഖ്യാ പഠനത്തിനും പരീക്ഷണാത്മക പഠനത്തിനും സ്വതന്ത്ര ഉപരിതല ആശയം വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം വിശകലന വികസനത്തിന് പോലും അതിർത്തി അവസ്ഥ എങ്ങനെ ശ്രദ്ധാപൂർവ്വം വ്യക്തമാക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ അത് നോക്കും നിങ്ങൾക്കറിയാമോ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ഒരു സ്ട്രെസ് ടെൻസർ പഠിച്ചു സ്ട്രെസ് ടെൻസറിന്റെ പ്രയോജനം എന്താണ് സ്ട്രെസ് ടെൻസർ താൽപ്പര്യമുള്ള ഘട്ടത്തിൽ സ്ട്രെസ് വെക്ടറുകളുടെ മൊത്തത്തിലുള്ളത് നൽകുന്നു നിങ്ങൾ ഒരു മോഹർ സർക്കിളിലേക്ക് പോകുമ്പോൾ മോഹർ സർക്കിളിന്റെ അതിർത്തിയിലുള്ള ഓരോ പോയിന്റും താൽപ്പര്യമുള്ള സ്ഥലത്തിലൂടെ കടന്നുപോകുന്ന ഒരു പ്രത്യേക തലത്തെ തിരിച്ചറിയുന്നു അതിനാൽ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായത് താൽപ്പര്യമുള്ള സ്ഥലത്തിലൂടെ കടന്നുപോകാൻ സാധ്യതയുള്ള എല്ലാ തലങ്ങളിലും സ്ട്രെസ് വെക്റ്റർ അറിയണമെന്നാണ് സ്ട്രെസ് ടെൻസർ മീഡിയ വഴി മാത്രമാണ് എന്നാൽ നമ്മൾ സ്ട്രെസ് ടെൻസറിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു സ്ട്രെസ് വെക്ടറിന്റെ പ്രാധാന്യം നമ്മൾ മറക്കുന്നു അതിനാൽ നിങ്ങൾ തിരിച്ചുപോയി സ്ട്രെസ് വെക്റ്ററിനെ കൂടുതൽ സൂക്ഷ്മമായി നോക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ് എനിക്ക് ഒരു സ്ട്രെസ് ടെൻസർ ഉണ്ടെന്ന് കരുതുക സ്ട്രെസ് വെക്റ്റർ എങ്ങനെ കണ്ടെത്താം കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരു തലത്തിൽ ഞാൻ സ്ട്രെസ് വെക്റ്റർ കണ്ടെത്താൻ പോകുന്നു അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് N ഒരു ഉപരിതലത്തിന്റെ ബാഹ്യ സാധാരണമാണെങ്കിൽ ആ തലത്തിലെ സ്ട്രെസ് വെക്റ്ററാണ് നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് താൽപ്പര്യമുള്ള ഘട്ടത്തിൽ എനിക്ക് സ്ട്രെസ് ടെൻസർ അറിയാം കോഴ്സിൽ നിങ്ങൾ ചെയ്തത് ആർക്കെങ്കിലും ഓർമിക്കാൻ കഴിയുമോ ഇത് നിങ്ങളുടെ കൌച്ചിയുടെ ഫോർമുലയല്ലാതെ മറ്റൊന്നുമല്ല അതു പോലെ എളുപ്പം അതിനാൽ നിങ്ങൾക്ക് പ്രതീകാത്മകതയുണ്ട് എനിക്ക് തലം n ലെ സ്ട്രെസ് വെക്റ്റർ ഉണ്ട് തലത്തിന്റെ ബാഹ്യ സാധാരണത്തെ നിർവചിക്കുന്ന കോസൈനുകൾ ദിശ കൊണ്ട് ഗുണിച്ച സ്ട്രെസ് ടെൻസറാണ് ഒരു ഉദാഹരണം പരിഹരിക്കുന്നതിൽ നിന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്രസ്താവന നടത്തും ഒരു സ്വതന്ത്ര ഉപരിതലത്തിന്റെ നിർവചനം എന്താണ് ഒരു സ്വതന്ത്ര ഉപരിതലത്തിൽ സ്ട്രെസ് ടെൻസർ പൂജ്യമായിരിക്കേണ്ടതില്ല പക്ഷേ സ്ട്രെസ് വെക്റ്റർ പൂജ്യമാണ് വാസ്തവത്തിൽ ലളിതമായ പിരിമുറുക്കം വളവ് അല്ലെങ്കിൽ ടോർഷൻ പോലുള്ള നിങ്ങളുടെ പല പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് സ്വതന്ത്ര പ്രതലങ്ങളുണ്ടായിരുന്നു അതിനാൽ ചില സമ്മർദ്ദ ഘടകങ്ങൾ നിലവിലുണ്ടാകാം അതാണ് കാരണം നിങ്ങൾ അതിർത്തി വ്യവസ്ഥ എഴുതുമ്പോൾ ഇത് ഒരു സ്വതന്ത്ര ഉപരിതലമാണോ എന്ന് അറിയാൻ നിങ്ങളെ പരിശീലിപ്പിക്കണം അവിടെ എല്ലാം പൂജ്യമാണെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല അതിനാൽ ഇവിടെ പറയുന്നത് സ്ട്രെസ് വെക്റ്റർ പൂജ്യമാണ് സ്ട്രെസ് ടെൻസർ പൂജ്യമാകേണ്ടതില്ല അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നമ്മൾ പ്രസ്താവനയ്ക്ക് യോഗ്യത നേടണം നമ്മൾ പോയി പ്രസ്താവനയ്ക്ക് യോഗ്യത നേടും മറ്റ് പ്രശ്നങ്ങളും നമ്മൾ പരിശോധിക്കും അതിനാൽ ഞാൻ ഇതുപോലെ പറയുമ്പോൾ ഗണിതശാസ്ത്രപരമായി ഞാൻ ഇത് ഇതുപോലെ എഴുതുന്നു T n പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ അതാണ് ഒരു സ്വതന്ത്ര ഉപരിതലത്തിന്റെ ഗണിതശാസ്ത്ര നിർവചനം മറ്റൊരു പ്രധാന കാര്യം ഈ വെക്റ്ററിന്റെ ദിശ എന്താണ് നോക്കൂ നിങ്ങൾ ഒരു ഉപരിതലമെടുക്കുമ്പോൾ ഉപരിതലത്തിന് ഇതുപോലുള്ള ബാഹ്യ നോർമൽ ഉണ്ടായിരിക്കാം പക്ഷേ സ്ട്രെസ് വെക്റ്റർ ഏത് കോണിലും ആകാം ഇത് ബാഹ്യ സാധാരണ ദിശയുമായി പൊരുത്തപ്പെടേണ്ടതില്ല താൽപ്പര്യമുള്ള ഒരു ഘട്ടത്തിൽ അതിലൂടെ നിങ്ങൾക്ക് തലങ്ങൾ അനന്തമായി കടന്നുപോകും തലത്തിൽ ഒന്ന് സ്വതന്ത്ര ഉപരിതലമായിരിക്കാം ശരി നിങ്ങൾ മാതൃകയുടെ അതിർത്തിയിൽ ഒരു പോയിന്റ് എടുക്കുന്നുവെന്നും അത് ഒരു സ്വതന്ത്ര ഉപരിതലമാണെന്നും കരുതുക സൌജന്യമെന്ന് നിർവചിച്ചിരിക്കുന്ന ഒരു തലം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാൽ സാധ്യമായ മറ്റെല്ലാ തലങ്ങളിലും നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാകാം അതിനാൽ സാധ്യമായ മറ്റെല്ലാ തലങ്ങളിലും നിങ്ങൾക്ക് സ്ട്രെസ് വെക്ടറിന്റെ ഒരു ദിശ ഉണ്ടാകും നിങ്ങൾക്ക് എന്താണ് ഉള്ളത് മറ്റൊരു പ്രധാന ഫലം ഒരു സ്വതന്ത്ര ഉപരിതലത്തിലെ സ്ട്രെസ് വെക്റ്റർ ദിശ ഏറ്റവും മികച്ചതായിരിക്കും ഇത് മറ്റൊരു സ്വഭാവമാണ് ഇത് നിങ്ങൾക്ക് പോയി പരിശോധിക്കാൻ കഴിയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നു ഈ ധാരണകൾ വളരെ അടിസ്ഥാനപരവും പ്രധാനപ്പെട്ടതുമായതിനാൽ ഈ പ്രസ്താവനകൾക്കെല്ലാം നമ്മൾ യോഗ്യത നേടും മറ്റൊരു പ്രസ്താവന സ്ട്രെസ് വെക്ടറിന് സ്വതന്ത്ര അതിർത്തി കടക്കാൻ കഴിയില്ല അതിനാൽ എനിക്ക് ഒരു സ്വതന്ത്ര അതിർത്തി ഉണ്ടെങ്കിൽ താൽപ്പര്യമുള്ള സ്ഥലമായ സ്ട്രെസ് വെക്റ്ററിലൂടെ കടന്നുപോകുന്ന ഏതെങ്കിലും ഒരു തലത്തിൽ ഞാൻ കണ്ടെത്തിയാൽ ആ ദിശയ്ക്ക് ഒരു സ്വതന്ത്ര അതിർത്തി കടക്കാൻ കഴിയില്ല നോക്കൂ നിങ്ങൾ കത്രികയുടെ വികസനം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കത്രികയ്ക്ക് ഒരു സ്വതന്ത്ര അതിർത്തി കടക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു വളയത്തിന് കീഴിലുള്ള ബീമിലെ മുകളിലും താഴെയുമുള്ള ഉപരിതലങ്ങളിൽ നിങ്ങൾ ഉള്ളതിന്റെ കാരണം അതാണ് കത്രിക പൂജ്യമാണ് അതിനാൽ ഷിയറിന് ഒരു സ്വതന്ത്ര അതിർത്തി കടക്കാൻ കഴിയില്ല എന്നത് ഒരു സാധാരണ ഫലത്തിന്റെ ഒരു പ്രത്യേക കേസ് മാത്രമാണ് സ്ട്രെസ് വെക്റ്ററിന് സ്വതന്ത്ര അതിർത്തി കടക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു ടെൻഷൻ സ്ട്രിപ്പിന്റെ ലളിതമായ പ്രശ്നം നമ്മൾ ഏറ്റെടുക്കും ഇതുപോലെ ലോഡിംഗ് കാണിക്കാൻ ഞാൻ വേദന അനുഭവിച്ചു ഇത് ഒരു ഏകീകൃത ലോഡിംഗായി ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഇത് ഒരു സ്വതന്ത്ര ബാഹ്യ കോണാണെന്ന് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെയാണ് ഞാൻ ലോഡ് പ്രയോഗിച്ചത് ഈ ഉപരിതലത്തിന് എന്ത് സംഭവിക്കും ഇതൊരു സ്വതന്ത്ര ഉപരിതലമാണ് ഇതും ഒരു സ്വതന്ത്ര ഉപരിതലമാണ് കാരണം ഞാൻ ഇവിടെ മാത്രം ലോഡ് പ്രയോഗിച്ചു ഞാൻ ഇവിടെ ഒരു പിൻ ഇട്ടു ഞാൻ ഒരു ലോഡ് വലിക്കുന്നു അതിനാൽ അകലെ സെന്റ് വിനാന്റ് തത്വം കാരണം നിങ്ങൾക്ക് ഏകീകൃത സമ്മർദ്ദ വിതരണം ഉണ്ടാകും ഇപ്പോൾ സ്വതന്ത്ര ഉപരിതലത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു പോയിന്റ് B എടുക്കുന്നു എനിക്ക് x അക്ഷം തിരശ്ചീനമായും y അക്ഷം ലംബമായും ഉണ്ടെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒന്നാമതായി സ്ട്രെസ് ടെൻസർ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം ഞാൻ സ്ട്രെസ് ടെൻസർ എഴുതാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഒമ്പത് ഘടകങ്ങളും പൂരിപ്പിക്കും അത് ചെയ്യുന്നത് ഒരു നല്ല പരിശീലനമാണ് സ്ട്രെസ് ടെൻസർ അതിന്റെ പൂർണ്ണതയിൽ എഴുതുന്നത് ഒരു നല്ല പരിശീലനമാണ് ഞാൻ ഇത് y ദിശയായി കണക്കാക്കുന്നതിനാൽ എനിക്ക് കുറച്ച് വ്യാപ്തി ഉണ്ടായിരിക്കും എനിക്ക് ക്രോസ് സെക്ഷൻ അറിയാമെങ്കിൽ y ദിശയിലുള്ള സ്ട്രെസ് മാഗ്നിറ്റ്യൂഡ് സിഗ്മ y a ആണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും മറ്റ് സമ്മർദ്ദ ഘടകങ്ങളൊന്നും നിലവിലില്ല കാരണം പ്രശ്നം വളരെ ലളിതമാണ് ഇത് വീണ്ടും ഒരു ക്ലോസ് ഫോം പരിഹാരമാണ് ഡൊമെയ്നിലെ ഓരോ ഘട്ടത്തിലും ഇത് സംഭവിക്കുന്നു ലോഡിംഗ് പോയിന്റുകളിൽ നിന്ന് അകലെ കാരണം ലോഡിംഗ് പോയിന്റുകൾക്ക് സമീപം വ്യതിയാനങ്ങൾ ഉണ്ടാകും ഇലാസ്തികത സിദ്ധാന്തത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് അത് നേടാനാകൂ പ്രശ്നം പരിഹരിക്കാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സംഖ്യാ അല്ലെങ്കിൽ പരീക്ഷണാത്മക വിശകലനത്തിനായി പോകണം ഇപ്പോൾ എനിക്ക് സ്ട്രെസ് ടെൻസർ അറിയാം ഈ ഉപരിതലം സ്വതന്ത്ര ഉപരിതലമാണെന്നും നിങ്ങൾക്കറിയാം അതിനാൽ സ്വതന്ത്ര ഉപരിതലത്തെ നിർവചിക്കുന്നത് ബാഹ്യമായ സാധാരണമാണ് സാധാരണയും നമുക്ക് കണ്ടെത്താനാകും അത് n1 ആയി നൽകിയിരിക്കുന്നു കൂടാതെ ദിശ കോസൈനുകൾ എഴുതാൻ വളരെ ലളിതവുമാണ് കൊസൈൻ ദിശ 1 0 0 അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇപ്പോൾ തലം n1 ലെ സ്ട്രെസ് വെക്റ്റർ എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും കാരണം ഞാൻ തലം n1 സ്വതന്ത്ര ഉപരിതലമായി നിർവചിക്കുന്നു അതിനാൽ ഞാൻ T n1 കണക്കാക്കേണ്ടതുണ്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ T n1 0 ലേക്ക് പോകുന്നു അതിനാൽ നമ്മൾ പരോക്ഷമായി തെളിയിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്ര ഉപരിതലത്തിന്റെ ഗണിതശാസ്ത്ര നിർവചനം T n0 ന് തുല്യമാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ തലം n1 അതിനാൽ T n1 0 ന് തുല്യമാണ് അതിനാൽ നിങ്ങളുടെ കൌച്ചിയുടെ ഫോർമുലയിൽ നിന്ന് അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വിപുലീകരിച്ച രൂപത്തിൽ ഇത് ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് പോയി പരിശോധിച്ചുറപ്പിക്കാൻ കഴിയും ഇത് ഒരു സ്വതന്ത്ര ഉപരിതലമാണെന്ന് നിങ്ങൾക്ക് പോയി പരിശോധിക്കാം നിങ്ങൾക്ക് പോയി പരിശോധിക്കാം രസകരമായ മറ്റൊരു പ്രശ്നം നമ്മൾ കാണും ഞാൻ ഇവിടെ ഒരു മൂല എടുത്തു രസകരമായ മറ്റൊരു ചിത്രം ഞാൻ കാണിക്കും എനിക്ക് മാതൃകയിൽ നിന്ന് പുറത്തായ ഒരു നീണ്ടുനിൽക്കൽ ഉണ്ട് നോക്കൂ ഒരു സ്ട്രെസ് വിശകലനം നടത്താതെ നിങ്ങൾ എന്നോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മൂലയിലെ സമ്മർദ്ദത്തിന്റെ മൂല്യം എന്താണ് നിങ്ങൾക്ക് ഒരു ഊഹക്കച്ചവടം മാത്രമേ നടത്താൻ കഴിയൂ നോക്കൂ നിങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല ഇത് അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് വെക്ടറിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ ഒരു സ്വതന്ത്ര ഉപരിതലമെന്താണെന്ന് ഞാൻ മനസിലാക്കുന്നുവെങ്കിൽ താൽപ്പര്യമുള്ള സ്ഥലത്തിലൂടെ കടന്നുപോകാൻ സാധ്യതയുള്ള എല്ലാ തലങ്ങളിലും സ്ട്രെസ് വെക്ടറിന്റെ ദിശ എന്താണെന്ന് ഞാൻ മനസിലാക്കുന്നുവെങ്കിൽ എനിക്ക് ഈ ചോദ്യത്തിന് ബോധ്യത്തോടെ ഉത്തരം നൽകാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് A പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നോക്കേണ്ടതുണ്ട് ഓർക്കുക ഇത് വളരെ മൂർച്ചയുള്ള ഒരു കോണാണ് ഇത് വളരെ മൂർച്ചയുള്ള കോണാണ് അവിടെ വക്രതയില്ല അത് വളരെ പ്രധാനമാണ് വക്രതയുണ്ടെങ്കിൽ ചർച്ച സാധുവല്ല അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഇത് ബാഹ്യ സാധാരണ n1 നിർവചിച്ചിരിക്കുന്ന ഒരു സ്വതന്ത്ര ഉപരിതലമാണ് ഇത് ബാഹ്യ സാധാരണ n 2 നിർവചിച്ചിരിക്കുന്ന ഒരു സ്വതന്ത്ര ഉപരിതലമാണ് എനിക്ക് ഈ പോയിന്റിൽ A ഉണ്ടെന്ന് കരുതുക പോയിന്റ് A ഉപരിതല n1 ആയി കണക്കാക്കുന്നുവെങ്കിൽ സ്ട്രെസ് വെക്റ്റർ ഈ ദിശയിലായിരിക്കും ഉപരിതല n2 ന്റെ പോയിന്റ് A എന്ന് ഞാൻ കരുതുന്നുവെന്ന് കരുതുക സ്ട്രെസ് വെക്റ്റർ ഈ ദിശയിലായിരിക്കും അതിനാൽ ഇത് ഒരു വൈരുദ്ധ്യത്തിലേക്ക് നയിക്കുന്നു വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കാനാകും സ്ട്രെസ് ടെൻസർ പൂജ്യമാകുമ്പോൾ മാത്രമേ വൈരുദ്ധ്യം പരിഹരിക്കാൻ കഴിയൂ അതിനാൽ കോർണർ പോയിന്റിൽ സ്ട്രെസ് വെക്റ്റർ പൂജ്യമാകാം സ്ട്രെസ് ടെൻസറും പൂജ്യമാണെങ്കിൽ മാത്രം അതിനാൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഫലം ലഭിക്കും സ്ട്രെസ് വിശകലനം നടത്താതെ നിങ്ങൾക്ക് പോയി പറയാൻ കഴിയും ഇപ്പോൾ ഇത് ഒരു ബാഹ്യ കോണാണ് കോർണർ 1 കോർണർ 2 കോർണർ 3 കോർണർ 4 എന്നിവയ്ക്കായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അതേ ചർച്ച ഈ കോണുകളുടെ സ്ട്രെസ് ടെൻസറും പൂജ്യമാണ് സ്ട്രെസ് വെക്റ്റർ പൂജ്യമാണ് സ്ട്രെസ് ടെൻസറും പൂജ്യമാണ് ഫോട്ടോ ഇലാസ്റ്റിറ്റി ഉപയോഗിച്ച് നിങ്ങൾ ഒരു പരീക്ഷണം നടത്തുമ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു സ്വഭാവമാണ് കാരണം നമ്മൾ അവിടെ നിന്ന് സീറോത്ത് ഫ്രിഞ്ച് ഓർഡർ ആരംഭിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് നീണ്ടുനിൽക്കുന്നതിനുപകരം ഒരു വി ഗ്രോവ് പോലെ ഇവിടെ ഒരു മെറ്റീരിയൽ നീക്കംചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൂല ഏകമായി മാറുന്നു നിങ്ങൾക്ക് വളരെ ഉയർന്ന സമ്മർദ്ദങ്ങൾ ഉണ്ടാകും അവയെ റീട്രന്റ് കോണുകൾ എന്ന് വിളിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ വീണ്ടും പ്രവേശിക്കുന്ന കോണുകളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം വാസ്തവത്തിൽ വില്യമിന്റെ ഐജൻവാല്യു പരിഹാരം അത്തരത്തിലുള്ള ഒരു വി ദ്വാരത്തിനു വേണ്ടിയായിരുന്നു അത് നീണ്ടുനിൽക്കുമ്പോൾ ഒരു സ്വതന്ത്ര ഉപരിതലമുള്ളപ്പോൾ അത് പൂജ്യമാണ് അതിനുള്ളിലായിരിക്കുമ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമാണ് ഈ ക്ലാസ്സിൽ ഊർജ്ജ പ്രകാശന നിരക്കിന്റെ കൂടുതൽ ആശയങ്ങൾ നമ്മൾ പരിശോധിച്ചു ഇടത്തരം കട്ടിയുള്ള പ്ലേറ്റുകളിൽ കാണപ്പെടുന്ന പോപ്പ് ഇൻ പ്രതിഭാസത്തെ എങ്ങനെ വിശദീകരിക്കാമെന്ന് നമുക്ക് ബോധ്യത്തോടെ കാണിക്കാൻ കഴിഞ്ഞു ഒന്നിലധികം വിള്ളലുകൾക്കിടയിൽ കാണിക്കുന്ന ഒരു പരീക്ഷണം നടത്താൻ നമ്മൾ നീങ്ങി അത് ശ്രദ്ധിക്കേണ്ട നിർണായക വിള്ളലാണ് വിള്ളലിന്റെ ദൈർഘ്യം അതിന്റെ വിമർശനത്തെ തിരിച്ചറിയുന്നതിനുള്ള നിർവചനമല്ല അതിന്റെ കോൺഫിഗറേഷനും വളരെ പ്രധാനമാണ് തുടർന്ന് മെറ്റീരിയലുകളുടെ ശക്തിയെക്കുറിച്ചും ഒരു സ്വതന്ത്ര ഉപരിതലത്തിന്റെ നിർവചനത്തെക്കുറിച്ചും ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഫലങ്ങൾ നേടുന്നതിനുള്ള അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും നമ്മൾ അവലോകനം നടത്തി